NPTEL ലെ ഓൺലൈൻ സോഷ്യൽ മീഡിയയിലെ സ്വകാര്യതയും സുരക്ഷയും എന്ന കോഴ്സിലേക്ക് സ്വാഗതം ഇത് ആഴ്ച നമ്പർ 10 ആണ് ഈ പ്രവണത തുടരാൻ നമ്മൾ പോകുന്നു നമ്മൾ മറ്റൊരു പേപ്പർ നോക്കാൻ പോകുന്നു അത് ഓൺലൈൻ സോഷ്യൽ മീഡിയയിലെ ചില സുരക്ഷാ സ്വകാര്യതാ പ്രശ്നങ്ങളും നോക്കുന്നു ഈ പേപ്പർ ഒരു ആർടി ബോസ്റ്റൺ മാരത്തണിന് ഒരു ഡോളറാണ് പ്രേ ഫോർ ബോസ്റ്റൺ ട്വിറ്ററിൽ വ്യാജ ഉള്ളടക്കം വിശകലനം ചെയ്യുന്നു അതിനാൽ വിശ്വാസ്യതയിലും വിശ്വാസത്തിലും എന്ന ഈ ഭാഗത്ത് ഞാൻ ഇത് ഹ്രസ്വമായി പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ ഒരു ഡോളർ ബോസ്റ്റൺ മാരത്തണിന് നൽകും എന്ന ഈ ട്വീറ്റ് ആണ് ഉദാഹരണമായി ഞാൻ ഉപയോഗിച്ചത് കൂടാതെ തലക്കെട്ടിലെ മറ്റു ഉള്ളടക്കങ്ങളും നിങ്ങൾക്കറിയാമല്ലൊ ബോസ്റ്റൺ മാരത്തോൺ പ്രേ ഫോർ ബോസ്റ്റൺ ആണ് ഹാഷ്ടാഗ് പിൽക്കാലത്തുള്ള സംഭവങ്ങളിലും ഇത്തരം ഹാഷ്ടാഗുകൾ നിങ്ങൾ കണ്ടിരിക്കണം പ്രേ ഫോർ പാരീസ് ട്വിറ്ററിലെ വ്യാജ ഉള്ളടക്കം വിശകലനം ചെയ്തുകൊണ്ട് പാരീസ് ആക്രമണം നടന്നപ്പോൾ ഇത് ട്രെൻഡിംഗ് ആയിരുന്നു അതിനാൽ നമ്മൾ കണ്ട വിശ്വാസ്യത പോലുള്ള ഉള്ളടക്കത്തിലേക്ക് ഞാൻ തിരികെ പോകാൻ പോകുന്നു പക്ഷേ അന്ന് നിങ്ങൾക്ക് കുറച്ച് ഗ്രാഫുകൾ കാണിച്ചു തന്നിട്ട് ഞാൻ മുന്നോട്ട് പോവുകയായിരുന്നു ഇപ്പോൾ നമ്മൾ പേപ്പർ എഴുത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് വിശദമായി കാണാൻ പോകുന്നു പേപ്പറാണ് ഈ വിഭാഗത്തിലെ ഞങ്ങളുടെ ശ്രദ്ധാകേന്ദ്രം അതിനാൽ ഈ പേപ്പറിലെ ക്ലെയിമുകൾ നിങ്ങൾ നോക്കണം അത്തരത്തിലുള്ള ഒരു മാധ്യമം ട്വിറ്റർ നമ്മൾ വിശകലനം ചെയ്തു ദയവായി ഓർക്കുക ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലയളവിൽ പ്രസിദ്ധീകരിച്ചതാണ് അതിനാൽ സോഷ്യൽ മീഡിയയെക്കുറിച്ചുള്ള ചില പരാമർശങ്ങൾ വളരെ അടിസ്ഥാനപരമായിരിക്കാം രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ പതിനഞ്ചാം തീയതി ബോസ്റ്റൺ മാരത്തൺ സ്ഫോടനത്തിന്റെ സമയത്ത് ട്വിറ്ററിൽ സൃഷ്ടിക്കപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വിശകലനം ചെയ്തു അതിനാൽ ബോസ്റ്റൺ മാരത്തൺ പ്രതിസന്ധി ഘട്ടത്തിൽ ട്വിറ്ററിലെ ഏറ്റവും വൈറൽ ഉള്ളടക്കത്തിന്റെ ഇരുപത്തിയൊമ്പത് ശതമാനവും കിംവദന്തികളും വ്യാജ ഉള്ളടക്കങ്ങളുമാണെന്ന് ആണ് രചയിതാക്കൾ അവകാശപ്പെടുന്ന ഫലങ്ങൾ അങ്ങനെ അവർ ഇത് ചെയ്യുന്നത് ഇങ്ങനെയാണ് അവർ അടിസ്ഥാനപരമായി ഏറ്റവും വലിയ വലിയ കൂട്ടം കിംവദന്തികൾ വലിയ കൂട്ടം പോസ്റ്റുകൾ ഉപയോക്താക്കളോട് ഇത് വ്യാഖ്യാനിക്കാൻ ആവശ്യപ്പെട്ടു അവർക്ക് മറ്റൊരു ഉറവിടത്തിൽ നിന്ന് യഥാർത്ഥ പോസിറ്റീവ് കിംവദന്തികൾ ലഭിച്ചു ബോസ്റ്റൺ മാരത്തോൺഉമായി ബന്ധപ്പെട്ടു സൃഷ്ടിക്കപ്പെട്ട പോസ്റ്റുകളിൽ ഇത്തരം പോസ്ററുകൾ എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നോക്കി അതിനാൽ ഏറ്റവും വൈറൽ ഉള്ളടക്കത്തിന്റെ 29 ശതമാനവും കിംവദന്തികളാണെന്ന് മനസ്സിലായി അതിനാൽ പോസ്റ്റുകളുമായി അവർ നടത്തിയ വ്യാഖ്യാനത്തിന്റെ ഫലം എന്തെന്നാൽ 51 ശതമാനം പൊതുവായ അഭിപ്രായങ്ങളും ബാക്കിയുള്ളത് യഥാർത്ഥ വിവരങ്ങളും ആയിരുന്നു നിരവധി ദുഷിച്ച അക്കൌണ്ടുകൾ സൃഷ്ടിക്കപ്പെട്ടു അതിനാൽ ബോസ്റ്റൺ ഇവന്റ് നടക്കുന്ന സമയത്തും അതിനു ശേഷവും ഉണ്ടാക്കപ്പെട്ട ഇത്തര ദുഷിച്ച അക്കൌണ്ടുകൾ പിന്നീട് ട്വിറ്റർ താൽക്കാലികമായി നിർത്തിവച്ചു രചയിതാക്കൾ അത്തരം ആറായിരത്തിലധികം ഉപയോക്തൃ പ്രൊഫൈലുകൾ തിരിച്ചറിഞ്ഞു സ്ഫോടനം നടന്നയുടനെ അത്തരം പ്രൊഫൈലുകൾ സൃഷ്ടിക്കുന്നത് ഗണ്യമായി വർദ്ധിച്ചതായി നിരീക്ഷിച്ചു അതിനാൽ കോഴ്സിലുടനീളം ഞാൻ പരാമർശിച്ച ഒരു തീം നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ അത് ഇത്തരം പ്രൊഫൈലുകൾ കണ്ടെത്തുക എന്നതായിരുന്നു വ്യാജ പ്രൊഫൈലുകളെ തിരിച്ചറിയുക എന്നത് ട്വിറ്റർ പോലുള്ള സേവനങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായിരിക്കെ ഇത്തരം പ്രൊഫൈലുകളെ നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാനാകും ഈ ബോസ്റ്റൺ മാരത്തൺ സ്ഫോടനം സംഭവിക്കുകയും ആളുകൾ പരിഭ്രാന്തിയിലാകുകയും ആ സാഹചര്യം ഇത്തരം വ്യാജ അക്കൌണ്ട് സൃഷ്ടിക്കുന്നതിനും ഉള്ളടക്കം പോസ്റ്റുചെയ്യുന്നതിനും കുറ്റവാളികൾ ഉപയോഗിക്കുന്നു എന്നുമാത്രമല്ല ഇവ ധാരാളം പ്രാധാന്യം നേടുകയും ചെയ്യുന്നു നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതുപോലെ ആരെങ്കിലും ബോസ്റ്റൺ മാരത്തൺ അല്ലെങ്കിൽ ബോസ്റ്റണുമായി ബന്ധപ്പെട്ട ഹാഷ്ടാഗ് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഹാഷ്ടാഗിൽ താൽപ്പര്യമുള്ള ആളുകൾക്ക് ഇത് ലഭ്യമാകും അതിനാൽ ഈ ഹാഷ്ടാഗിലൂടെ കിംവദന്തികൾ പരത്തുന്നത് വളരെ ലളിതമായിത്തീരുന്നു അതാണ് പേപ്പറിന്റെ ചുരുക്കവും ഇപ്പോൾ യഥാർത്ഥത്തിൽ ആമുഖം രീതിശാസ്ത്രം ഡാറ്റ സെറ്റ് സംഭാവനകൾ അവയിലുള്ള ഫലങ്ങൾ എന്നിവ നോക്കാം അതിനാൽ ആമുഖത്തിൽ ബോസ്റ്റൺ മാരത്തൺ സ്ഫോടനത്തെക്കുറിച്ചും എന്താണ് സംഭവിച്ചതെന്നും സംഭവങ്ങൾ എങ്ങനെയാണ് ബോസ്റ്റൺ മാരത്തണിൽ നിന്ന് ആസൂത്രണം ചെയ്തതെന്നും രചയിതാക്കൾ പൊതുവെ പരാമർശിച്ചു അതിനാൽ ഈ പേപ്പറിന്റെ ലക്ഷ്യം ബോസ്റ്റൺ സ്ഫോടനം പോലുള്ള സംഭവങ്ങളിൽ ട്വിറ്ററിലെ വിവിധ തരത്തിലുള്ള ക്ഷുദ്ര പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക എന്നതാണ് അതിനാൽ ഇത്തരം പ്രവർത്തനങ്ങളെ കാണാനും തരംതിരിക്കാനും അവയെ നേരിടാനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനുമാണ് താൽപര്യം അതിനാൽ അവർ പിന്നീട് എടുക്കുന്ന ഒരു പ്രശ്നം തെറ്റായ വിവരങ്ങൾ നൽകുക എന്നതാണ് എഴുത്തുകാർ 7 8 ദശലക്ഷം ട്വീറ്റുകൾ ശേഖരിച്ചു ഏതുതരം രീതിശാസ്ത്രം ഉപയോഗിച്ചാണ് അവർ ഇത്രയധികം പോസ്റ്റുകൾ ശേഖരിച്ചതെന്ന് നമ്മൾ രീതിശാസ്ത്രത്തെക്കുറിച്ചു സംസാരിക്കുമ്പോൾ കാണാം അതിനാൽ സ്ഫോടനത്തിന് 45 മിനിറ്റിന് ശേഷം ഇത് ആരംഭിച്ചതിൽ നിന്ന് വിവരശേഖരണം പരിമിതപ്പെടുത്തി രസകരമെന്നു പറയട്ടെ ഇത്തരത്തിലുള്ള വിവരശേഖരണം നടത്തുന്ന രീതി എങ്ങനെ എന്നാൽ ഒരു സംഭവം നടന്നു എന്ന് കണ്ടാൽ അതുമായി ബന്ധപ്പെട്ട ട്രെൻഡിങ് ആയിട്ടുള്ള ഹാഷ്ടാഗുകൾ എടുക്കുകയും അവയിൽ നിന്ന് ഡാറ്റ കളക്റ്റ് ചെയ്യുകയും ചെയുന്നു എന്നതാണ് അതിനാൽ ഇതിന് ചില പോരായ്മകളും ഉണ്ടായിരിക്കാം ഈ സാഹചര്യത്തിൽ റഫർ സമയം 0739 45 മിനിറ്റിനുള്ളിൽ വന്ന പോസ്റ്റുകളിലെ രസകരമായ കാര്യം രചയിതാവ് പിന്നീട് വിശദീകരിച്ചു എന്തെന്നാൽ ഈ 45 മിനിറ്റിനുള്ളിൽ വന്ന പോസ്റ്റുകളിൽ ചിലത് യഥാർത്ഥത്തിൽ റീട്വീറ്റുകളാണ് അതിനാൽ പ്രധാനമായും 45 മിനിറ്റ് മുമ്പ് ട്വീറ്റ് ചെയ്ത ട്വീറ്റുകൾ യഥാർത്ഥത്തിൽ ഇവിടെ ഡാറ്റയുടെ ഭാഗമായിട്ടുണ്ട് കിംവദന്തികളുടെ കാര്യത്തിൽ ഏറ്റവും വലിയ ഡാറ്റാസെറ്റാണ് എന്നതാണ് പേപ്പറിന്റെ മറ്റ് ക്ലെയിമുകളിൽ ഒന്ന് അതിനാൽ മുമ്പ് നിങ്ങൾക്ക് വ്യത്യസ്തമായ സാഹചര്യത്തിൽ ഞാൻ കാണിച്ച ട്വീറ്റുകൾ ഇതാ അത് ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ റീട്വീറ്റുകൾക്കും ഞങ്ങൾ ബോസ്റ്റൺ മാരത്തൺ ഇരകൾക്ക് 1 ഡോളർ സംഭാവന ചെയ്യും ബോസ്റ്റണിനായി പ്രാർത്ഥിക്കുക എന്നതായിരുന്നു അതിനാൽ ഹാൻഡിൽ അണ്ടർസ്കോർ ബോസ്റ്റൺ മാരത്തൺ എന്നത് ഒരു യഥാർത്ഥ അക്കൌണ്ട് അല്ല ഹോപ്പ് ഫോർ ബോസ്റ്റൺ സാൻഡി ഹുക്ക് കുട്ടികൾക്കായി ഓടുന്നതിനിടെ ബോസ്റ്റണിലുണ്ടായ സ്ഫോടനത്തിൽ മരിച്ച 8 വയസ്സുള്ള ആൺകുട്ടിക്കുവേണ്ടി പ്രാർത്ഥിക്കുക ഒന്നുമില്ല ഒരു കുട്ടിയുമില്ല ഒരു കുട്ടി ബോസ്റ്റൺ മാരത്തണിന്റെ ഭാഗവുമായിരുന്നില്ല ബോസ്റ്റൺ മാരത്തണിൽ പങ്കെടുക്കുകയും സ്ഫോടനം കാരണം യഥാർത്ഥത്തിൽ കൊല്ലപ്പെടുകയും ചെയ്ത ഒരു കുട്ടിയും ഉണ്ടായിരുന്നില്ല അതിനാൽ ഇത് ബോസ്റ്റൺ മാരത്തണിന്റെ പശ്ചാത്തലം മാത്രമാണ് 2013 ഏപ്രിൽ 15 ന് ഏകദേശം 1850 ന് ബോസ്റ്റൺ മാരത്തണിൽ നടന്ന ഇരട്ട സ്ഫോടനമാണിത് സംഭവത്തിൽ 3 പേർ മരിക്കുകയും 264 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതിനാൽ ഇപ്പോൾ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ സ്ഫോടനം നടക്കുമ്പോൾ പുറത്തുവന്ന ഒരു ചിത്രം ഇതാ ബോസ്റ്റൺ മാരത്തൺ സ്ഫോടന സമയത്ത് ക്ലിക്ക് ചെയ്ത ആദ്യ ചിത്രങ്ങളിൽ ഒന്നാണിത് അതിനാൽ താൽക്കാലിക ഉറവിടവും ഉപയോക്തൃ ആട്രിബ്യൂട്ടുകളും ഉപയോഗിച്ച് ട്വിറ്ററിൽ വ്യാജ ഉള്ളടക്കത്തിന്റെ വ്യാപനത്തെ രചയിതാക്കൾ വിശേഷിപ്പിച്ചു അതിനാൽ ഈ പേപ്പറിലെ ചില വിശകലനങ്ങൾ വളരെ ലളിതമായി നിങ്ങൾ മനസ്സിലാക്കാം അതായത് ഉപയോക്താക്കൾക്ക് ഉള്ളടക്കം പോസ്റ്റുചെയ്യുമ്പോൾ ഏത് തരത്തിലുള്ള ഉപകരണങ്ങളാണ് ഉപയോഗിച്ചിരുന്നതെന്ന് രചയിതാക്കൾ കാണിക്കും വീണ്ടും ഇത് രണ്ടായിരത്തി പതിമൂന്നിൽ നടക്കുന്നത്കൊണ്ട് രചയിതാക്കൾ അതിനെ നോക്കുന്ന രീതിയും അല്പം പ്രാഥമികമാണ് കൂടാതെ ഏകദേശം 75 ശതമാനം വ്യാജ ട്വീറ്റുകളും മൊബൈൽ ഫോണുകൾ വഴിയാണ് പ്രചരിപ്പിക്കുന്നതെന്ന് നമ്മൾ കണ്ടെത്തി ഉപയോക്താക്കളുടെ ആട്രിബ്യൂട്ടുകളുടെയും സ്വാധീനത്തിന്റെയും അടിസ്ഥാനത്തിൽ ഭാവിയിൽ വൈറൽ വ്യാജ ഉള്ളടക്കം എങ്ങനെ പ്രചരിപ്പിക്കുന്നുവെന്ന് പ്രവചിക്കാൻ നമ്മൾ ഒരു ലീനിയർ റിഗ്രഷൻ മോഡൽ പ്രയോഗിച്ചു താൽക്കാലികമായി നിർത്തിവച്ച ഉപയോക്തൃ പ്രൊഫൈലുകൾക്കുള്ള പ്രവർത്തനവും ഇടപെടൽ ഗ്രാഫുകളും ഞങ്ങൾ വിശകലനം ചെയ്തു അവർ ചെയ്ത ഒരു രസകരമായ കാര്യം രചയിതാക്കൾ യഥാർത്ഥത്തിൽ സസ്പെൻഡ് ചെയ്ത ഉപയോക്തൃ പ്രൊഫൈലുകൾ നോക്കുകയും ഈ ഉപയോഗിച്ച അക്കൌണ്ടുകളിലെ ഉപയോക്താക്കളെ എങ്ങനെയാണ് സസ്പെൻഡ് ചെയ്തതെന്ന് വിശകലനം ചെയ്യുകയും ചെയ്തു എന്നതാണ് ഈ കോഴ്സിൽ ഇവിടെ അവസാന വരി ഒന്നിലധികം തവണ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് കരുതുന്നു ആൾമാറാട്ടം പ്രചരണം തുടങ്ങിയ ഇ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാൻ ക്ഷുദ്ര ഉപയോക്താക്കൾ ഈ നടക്കുന്ന സംഭവത്തെ മുതലെടുക്കുന്നുവെന്ന് രചയിതാക്കൾ തിരിച്ചറിഞ്ഞു മറ്റുള്ളവർ ബന്ധപ്പെട്ട ജോലികൾ ഒന്നിലധികം വിഭാഗങ്ങളായി വിഭജിച്ചു ആദ്യത്തേത് യഥാർത്ഥ ലോക സംഭവങ്ങളിൽ OSM ന്റെ പങ്കാണ് യഥാർത്ഥ ലോക സംഭവങ്ങൾ സംഭവിക്കുമ്പോൾ ഉദാഹരണത്തിന് ഒരു ഭൂകമ്പമുണ്ടാകുമ്പോൾ ആണ് ഓൺലൈൻ സോഷ്യൽ മീഡിയകളിൽ ഉള്ളടക്കങ്ങൾ ഉണ്ടാകുന്നത് എന്ന് വളരെ വ്യക്തമാണ് ഉദാഹരണത്തിന് നേപ്പാൾ ഭൂകമ്പം ഒരു ഐപിഎൽ ക്രിക്കറ്റ് മത്സരം ഇവയെല്ലാം യഥാർത്ഥത്തിൽ ട്രിഗർ ചെയ്യുകയും ഓൺലൈൻ സോഷ്യൽ മീഡിയയിൽ വലിയ അളവിൽ ഉള്ളടക്കം സൃഷ്ടിക്കുകയും ചെയ്യുന്നു അതിനാൽ സോഷ്യൽ മീഡിയ ഉൾപ്പെടുന്ന വ്യത്യസ്ത തരം സംഭവങ്ങളെക്കുറിച്ച് രചയിതാക്കൾ വിശദമായി പരിശോധിക്കുന്നു തുടർന്ന് മറ്റ് വിഭാഗങ്ങളിലെ സംഭവങ്ങളുടെ സമയത്ത് ലഭ്യമായ മറ്റ് വിഭാഗത്തിലുള്ള സാഹിത്യങ്ങൾ യഥാർത്ഥത്തിൽ ഓൺലൈൻ സോഷ്യൽ മീഡിയയിലെ വിവരങ്ങളുടെ ഗുണനിലവാരം വിലയിരുത്തുന്നു ഇത് തെറ്റായ വിവരങ്ങൾ നോക്കാനാണ് ഇത് ഏത് തരത്തിലുള്ള ഉള്ളടക്കമാണ് പ്രചരിപ്പിക്കുന്നതെന്ന് നോക്കാനാണ് ഇവന്റ് അവയുടെ സ്വഭാവം അവ എത്ര നല്ലതോ ചീത്തയോ അതിന് ചുറ്റുമുള്ള വിഷയങ്ങളും സോഷ്യൽ മീഡിയയിലെ വലിയ വിവരങ്ങളുടെ തെറ്റായ വിവരങ്ങളുടെ ഈ ആശയം നോക്കുന്ന പുസ്തകങ്ങൾ പോലും ഇപ്പോൾ ഉണ്ട് ഈ പ്രത്യേക പേപ്പറിനായി നിങ്ങൾ മനസ്സിലാക്കേണ്ട അനുബന്ധ സാഹിത്യം എന്താണെന്ന് അടുത്ത ഭാഗം നിങ്ങൾക്ക് നൽകുന്നു ഞാൻ പറഞ്ഞ നാൽപ്പത്തഞ്ചു മിനിറ്റ് കാലതാമസം കീവേഡ് തിരഞ്ഞെടുക്കൽ മാനുവൽ കീവേഡ് തിരഞ്ഞെടുക്കൽ ഡാറ്റ ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്ന കാര്യത്തിൽ രചയിതാക്കൾക്ക് വളരെ ലളിതമായ ഒരു വാസ്തുവിദ്യയുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഞങ്ങളുടെ ട്വിറ്റർ സ്ട്രീമിംഗ് API ൽ നിന്ന് ഡാറ്റ ശേഖരിക്കുക വ്യാജ ഉള്ളടക്ക ടാഗിംഗ് ഏറ്റവും ജനപ്രിയമായ ട്വീറ്റുകൾ തിരഞ്ഞെടുക്കുക വ്യാജമോ സത്യമോ നിഷ്പക്ഷമോ എന്ന് സ്വമേധയാ ടാഗ് ചെയ്യുക അതിനാൽ ഇവന്റിൽ നിന്നുള്ള ട്വീറ്റുകൾ താൽക്കാലികമായി നിർത്തിവച്ച പ്രൊഫൈലുകൾ ടാഗുചെയ്യൽ ബോസ്റ്റൺ മാരത്തണിനെക്കുറിച്ച് ട്വീറ്റ് ചെയ്ത ട്വിറ്റർ സസ്പെൻഡ് ചെയ്ത എല്ലാ ഉപയോക്തൃ പ്രൊഫൈലുകളും ശേഖരിക്കുന്നതിൽ ചില വ്യാഖ്യാനങ്ങൾ സംഭവിക്കുന്നു അതിനാൽ ബോസ്റ്റൺ മാരത്തൺ ഹാഷ്ടാഗ് ഉണ്ടായിരുന്ന സസ്പെൻഡ് ചെയ്ത എല്ലാ ട്വീറ്റുകളും നീക്കം ചെയ്തു വ്യാജവും താൽക്കാലികവും സ്പേഷ്യൽ ഉറവിടം ആഘാതം താൽക്കാലികമായി നിർത്തിവച്ച പ്രൊഫൈൽ വിശകലനം ഇത് റീട്വീറ്റ് മറുപടി നെറ്റ്വർക്ക് ഉപയോക്തൃ വിവരണം താൽക്കാലിക വിശകലനം പ്രധാനമായും വിശകലനത്തിന്റെ രണ്ട് ഭാഗങ്ങൾ പൂർത്തിയായി ഒന്ന് വ്യാജമോ തെറ്റായ വിവരങ്ങളോ മനസ്സിലാക്കാനുള്ള ഇവന്റിലെ ഉള്ളടക്കമാണ് മറ്റൊന്ന് സസ്പെൻഡ് ചെയ്ത പ്രൊഫൈൽ ഉപയോക്താക്കളാണ് അതിനാൽ നിങ്ങൾ ഡാറ്റ ശേഖരണം നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് ഇതാണ് അവർ ഈ 7 9 ദശലക്ഷം എങ്ങനെ ശേഖരിക്കും യഥാർത്ഥത്തിൽ സംശയിക്കപ്പെടുന്ന വ്യക്തി എന്ന കീവേഡുകൾ അവർ ഉപയോഗിച്ചുഹാഷ് ടാഗ് വാട്ടർടൌൺ ഹാഷ് ടാഗ് മാന്ഹണ്ട് സീൻ കോളിയർ ഹാഷ് ടാഗ് ബോസ്റ്റൺസ്ട്രോംഗ് ഹാഷ് ടാഗ് ബോസ്റ്റൺബോംബിംഗ് ഹാഷ് ടാഗ് വൺബോസ്റ്റൺ ബോസ്റ്റൺ ഹൈഫൻ മാരത്തോൺ ഹാഷ് ടാഗ് പ്രേഫോർബോസ്റ്റൺ ബോസ്റ്റൺ സ്പേസ് മാരത്തൺ ഹാഷ് ടാഗ് ബോസ്റ്റൺസ്ഫോടനങ്ങൾ ബോസ്റ്റൺ സ്പേസ് സ്ഫോടനം ബോസ്റ്റൺ സ്പേസ് ഭീകരൻ ബോസ്റ്റൺ സ്പേസ് സ്ഫോടനങ്ങൾ ബോസ്റ്റൺഹെൽപ്പ് ബോസ്റ്റൺ സസ്പെക്റ്റ് അതിനാൽ യഥാർത്ഥത്തിൽ ഇതെല്ലാം ശേഖരിക്കുന്നതിന് രസകരമായ ഒരു മാർഗമുണ്ട് നിങ്ങൾ തിരയുന്നത് ഹാഷ്ടാഗ് ബോസ്റ്റൺ മാരത്തൺ ആണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ ആ ഹാഷ് ടാഗ് ഉപയോഗിച്ച് നൂറോളം ട്വീറ്റുകൾ ശേഖരിക്കുന്നു മറ്റ് വാക്കുകളുടെ എണ്ണത്തിന്റെ ആവൃത്തി നോക്കുക എന്നിട്ട് അത് എടുത്ത് തിരയൽ അന്വേഷണത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നിട്ട് ഡാറ്റ ശേഖരണം ആരംഭിക്കുക അതിനാൽ ഒരു വിഷയത്തിന്റെ വിവരങ്ങൾ വീണ്ടെടുക്കുന്നതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അത്തരത്തിലുള്ളതാണ് ഇതിനെ അന്വേഷണ വിപുലീകരണം എന്ന് വിളിക്കുന്നു നിങ്ങൾക്ക് ഒരു അന്വേഷണം എടുക്കാം തുടർന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് വിപുലീകരിക്കാം ഈ ഡാറ്റ ഏകദേശം 7 9 ദശലക്ഷമാണ് മൊത്തം ട്വീറ്റുകൾ മൊത്തം ഉപയോക്താക്കൾ മൊത്തം URL കൾ ജിയോ ടാഗുള്ള ട്വീറ്റുകൾ റീട്വീറ്റുകൾ മറുപടികൾ സ്ഫോടനത്തിന്റെ സമയം ആദ്യ ട്വീറ്റിന്റെ സമയം സ്ഫോടനത്തിന്റെ ആദ്യ ചിത്രത്തിന്റെ സമയം അവസാന ട്വീറ്റിന്റെ സമയം അടിസ്ഥാനപരമായി ഡാറ്റയുടെ വിതരണം എന്താണെന്ന് നിങ്ങളെ കാണിക്കാൻ ഞാൻ മുമ്പ് വിശദീകരിച്ചതുപോലെ 45 മിനിറ്റ് സ്ഫോടനം കാരണം നമ്മുടെ ഡാറ്റാ സെറ്റ് ശേഖരത്തിൽ ഇത് അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഡാറ്റ സെറ്റാണ് അതിനാൽ അവർ അത് ഇവിടെ വിശദീകരിച്ചു പക്ഷേ 45 മിനിറ്റുകളുടെ നിരവധി ട്വീറ്റുകൾ പിന്നീട് റീട്വീറ്റ് ചെയ്തു നമ്മുടെ വിവരശേഖരണ സംവിധാനത്തിലുള്ളിൽ അവയെ പിടിച്ചെടുക്കാനും നമുക്ക് കഴിഞ്ഞു ബോസ്റ്റൺ മാരത്തൺ സ്ഫോടനത്തിന്റെ ഏറ്റവും വലിയ വിവരശേഖരമാണിത് സ്ഫോടനം നടന്ന് 3 മിനിറ്റിനകം നമുക്ക് ആദ്യ ട്വീറ്റ് ലഭിച്ചു അതിനാൽ ഒരു രസകരമായ പ്രതിഭാസവും ഉണ്ട് സോഷ്യൽ മീഡിയയുടെ ഉള്ളടക്കമോ ഉള്ളടക്കം ദൃശ്യമാകുന്നതിന്റെ ആവൃത്തിയോ യഥാർത്ഥത്തിൽ നടക്കുന്ന സംഭവങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു യഥാർത്ഥ ലോകത്തും സോഷ്യൽ മീഡിയ ആവൃത്തിയിലും യഥാർത്ഥത്തിൽ വളരെയധികം ബന്ധമുണ്ട് അതിനാൽ ഇവിടെ നിങ്ങൾ കാണുകയാണെങ്കിൽ എക്സ് ആക്സിസ് സ്ഫോടനത്തിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് വൈ ആക്സിസ് എന്നത് ട്വീറ്റുകളുടെ എണ്ണമാണ് എവിടെയാണ് ഏറ്റവും ഉയർന്നത് യഥാർത്ഥ ലോക സംഭവവുമായി അതിനു നേരിട്ട് ബന്ധമുണ്ട് ആദ്യത്തേത് സ്ഫോടനം കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ രണ്ടാമത്തേത് സംശയാസ്പദമായവരുടെ ചിത്രങ്ങളും മൂന്നാമത്തേത് മാൻഹണ്ടും അവസാനിച്ചു ബോസ്റ്റൺ പോലീസ് അവരുടെ ഔദ്യോഗിക അക്കൌണ്ട് ഉപയോഗിച്ച് പ്രതികളുടെ ഫോട്ടോ പ്രചരിപ്പിക്കുകയും അന്വേഷണത്തിൽ സഹായം നേടുകയും ചെയ്തു അതിനാൽ നമ്മൾ വിശകലനം ചെയ്ത ഒരു കാര്യം പരിപാടിയുടെ സമയത്ത് രചയിതാക്കൾ യഥാർത്ഥത്തിൽ വിശകലനം ചെയ്തതാണ് ബോസ്റ്റൺ മാരത്തൺ ശെരിക്കുമുള്ള അക്കൌണ്ട് പൊതുജനങ്ങളിൽ നിന്ന് തന്നെ ഇൻപുട്ടുകൾ ലഭിക്കുന്നതിന് നിയമാനുസൃതമായ അക്കൌണ്ട് വഴി ചിത്രങ്ങൾ പങ്കിടാൻ തുടങ്ങി ഇത് പോലീസ് സംഘടനയുടെ രസകരമായ ഒരു പെരുമാറ്റമായിരുന്നു അതിനാൽ എഴുത്തുകാർ ചെയ്ത വ്യാഖ്യാനങ്ങൾ ബോസ്റ്റൺ മാരത്തൺ സമയത്ത് ഏറ്റവും ജനപ്രിയമായ 20 ട്വീറ്റുകൾ അവർ തിരിച്ചറിഞ്ഞു എന്നതാണ് മൊത്തത്തിൽ 20 ട്വീറ്റുകൾ മൊത്തം 400000 ട്വീറ്റുകളാണ് അത് 6 ശതമാനമാണ് രചയിതാക്കൾ ഈ ട്വീറ്റുകളെ സ്വമേധയാ മൂന്ന് വിഭാഗങ്ങളായി ടാഗുചെയ്തു ശരി ശ്രുതി വ്യാജം ലഭ്യമല്ല NA എന്നത് ബാധകമല്ല എന്നാണ് കൂടാതെ ഇവന്റിനെക്കുറിച്ചുള്ള യഥാർത്ഥ വിവരങ്ങളോ വ്യാജ വിവരങ്ങളോ നൽകാത്ത ട്വീറ്റുകളെ ഇത് പ്രതിനിധീകരിക്കുന്നു അവ കൂടുതലും വ്യക്തിപരമായ അഭിപ്രായങ്ങളും അനുശോചനങ്ങളുമാണ് അതിനാൽ അവരിൽ 50 ശതമാനവും യഥാർത്ഥത്തിൽ ഈ വിഭാഗത്തിൽ പെട്ടവരാണെന്ന് നിങ്ങൾ ഓർക്കണം അതിനാൽ ഇതിൽ 51 ശതമാനവും പൊതുവായ പ്രസ്താവനകളും അഭിപ്രായങ്ങളുമാണ് വ്യാജ ട്വീറ്റുകളുടെ എണ്ണം യഥാർത്ഥ വിവരങ്ങളേക്കാൾ 29 ശതമാനത്തോളം കൂടുതലായിരുന്നു അപ്പോൾ അതാണ് വ്യാഖ്യാനത്തിന്റെ ഫലം അതിനാൽ നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഞങ്ങൾ കണ്ട നിരവധി പേപ്പറുകൾ ഞങ്ങൾ കണ്ട നിരവധി ഗവേഷണങ്ങൾ ഈ പോസ്റ്റുകളോട് യഥാർത്ഥ ഉപയോക്താക്കൾ എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് മനസിലാക്കാൻ മോഡൽ പഠിക്കാൻ ഈ മനുഷ്യ വ്യാഖ്യാനം ചെയ്തു യഥാർത്ഥ വിവരങ്ങളും വ്യാജ വിവരങ്ങളും ട്വീറ്റ് ചെയ്ത ഉപയോക്താക്കളിൽ ഏകദേശം 3249 ഓവർലാപ്പുകളും യഥാർത്ഥ വിവരങ്ങൾ ട്വീറ്റ് ചെയ്ത 94000 പ്രത്യേക ഉപയോക്താക്കളിൽ 3 ശതമാനവും വ്യാജ ഇൻഫർമേഷൻ ട്വീറ്റ് ചെയ്ത 147000 പ്രത്യേക ഉപയോക്താക്കളിൽ 2 ശതമാനവും ഉണ്ടായിരുന്നു അതിനാൽ അടിസ്ഥാനപരമായി ഇത് പറയുന്നത് യഥാർത്ഥവും വ്യാജവുമായ വിവരങ്ങൾ ഒരുപോലെ പോസ്റ്റുചെയ്യുന്ന ആളുകളുണ്ടെന്നാണ് വ്യാജ വിവരങ്ങൾ പോസ്റ്റുചെയ്ത മൊത്തം ഉപയോക്താക്കളുടെ എണ്ണത്തിന്റെ 2 ശതമാനം ആളുകളുണ്ട് അവർ താൽക്കാലിക വിശകലനം രണ്ടാമത്തെ ആഴ്ചയിലോ മറ്റോ ഞാൻ നടത്തിയ ഒരു പ്രഭാഷണത്തിൽ നിങ്ങൾക്ക് കാണിച്ച ഗ്രാഫ് ആണ് ഇത് അവിടെ കിംവദന്തിയുടെ വ്യാപനം എന്താണെന്ന് ഞാൻ വിവരിച്ചു ഞങ്ങൾ ഈ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ ചുരുക്കിപ്പറയാം ശരിയായ വിവരങ്ങൾ യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് പച്ച നിറമുള്ള കിംവദന്തികളേക്കാൾ വളരെ വൈകിയാണ് കിംവദന്തികളും യഥാർത്ഥ വിവരങ്ങളേക്കാൾ വളരെ വേഗത്തിൽ പഠിക്കപ്പെടുകയും ചെയ്യുന്നു അതിനാൽ ഇത് പ്രവണത കുറയ്ക്കാനുള്ള വഴികളുണ്ട് ഒന്ന് ഈ യഥാർത്ഥ വിവരങ്ങൾ നേരത്തേ കൊണ്ടുവരിക മറ്റൊരു പരിഹാരം തെറ്റായ വിവരങ്ങൾ വളരെ വേഗം വീഴ്ത്തുക എന്നതാണ് ഈ വിദ്യകൾ കൈവരിക്കാനായാൽ തെറ്റായ വിവരങ്ങളുടെ വ്യാപനം വളരെയധികം കുറയ്ക്കാനാകുമെന്ന് ഞാൻ കരുതുന്നു യഥാർത്ഥത്തിൽ രചയിതാക്കൾ ശേഖരിച്ച സംഭവങ്ങൾ ട്വീറ്റ് ടെക്സ്റ്റ് ആർടികൾ വിഭാഗം എന്നിവയുള്ള പോസ്റ്റുകൾ എന്നിവയെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും നിങ്ങൾക്ക് നൽകുന്ന ഒരു പട്ടിക ഇതാ അതിനാൽ ഇത് മാനുവൽ വ്യാഖ്യാനത്തിന്റെ ഫലമാണ് കൂടാതെ രചയിതാക്കൾ അവർക്ക് ലഭ്യമായ എല്ലാ ആർടികളുടെയും ഒരു സാമ്പിൾ നൽകുന്നു അത് ഈ വിഭാഗത്തിൽ കുറയുന്ന ക്രമത്തിലാണ് അതിനാൽ ഏകദേശം 87000 ഉണ്ടായിരുന്ന പ്രേഫോർബോസ്റ്റൺ എന്ന ഹാഷ്ടാഗായിരുന്നു ആർ യിൽ മുകളിൽ അത് യഥാർത്ഥത്തിൽ ക്ഷുദ്രമാണോ സത്യാവസ്ഥ ആണോ അതോ അതിൽ ഒരു വിവരങ്ങളും ഇല്ലേ എന്നോ നിങ്ങൾക്ക് പറയാൻ കഴിയില്ല അതിനാൽ നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ താൽക്കാലികമായി നിർത്തിവച്ച ഉപയോക്തൃ അക്കൌണ്ടുകൾ രചയിതാക്കൾ വിശകലനം ചെയ്തതാണ് യഥാർത്ഥത്തിൽ പേപ്പറിലെ സംഭാവനകളിലൊന്ന് അതിനാൽ വ്യാജ ട്വീറ്റുകൾ ഉത്ഭവിച്ച ഉപയോക്തൃ അക്കൌണ്ടുകളുടെ ആട്രിബ്യൂട്ടുകളും പ്രവർത്തനങ്ങളും അവർ വിശകലനം ചെയ്യുക എന്നതാണ് അവർ ചെയ്തത് പട്ടിക 3 വ്യാജ ട്വീറ്റ് ഉപയോക്താക്കളുടെ വിത്തിൽ നിന്നുള്ള വിവിധ ഉപയോക്തൃ പ്രൊഫൈലുകൾ ആട്രിബ്യൂട്ടുകൾ അവതരിപ്പിക്കുന്നു 6 വ്യാജ ട്വീറ്റുകളുടെ ഉപയോക്തൃ പ്രൊഫൈലുകൾ തിരിച്ചറിഞ്ഞു 2 ഉപയോക്താക്കൾ രണ്ട് കിംവദന്തികൾ ആരംഭിച്ചു മിക്ക വ്യാജ ട്വീറ്റുകൾക്കും സീഡ് ഉപയോക്താക്കൾ കുറച്ച് ആളുകളാണെന്ന് ഞങ്ങൾ നിരീക്ഷിക്കുന്നു അനുയായികൾ ധാരാളം അനുയായികളുള്ള ഒരേയൊരു ഉപയോക്തൃ പ്രൊഫൈൽ ആണ് സീഡ് 4 സീഡ് 4 പോസ്റ്റ് ചെയ്ത ട്വീറ്റ് ഫിനിഷ് ലൈൻ മറികടന്ന് ഇരകൾക്ക് രക്തം നൽകുന്നതിന് മാസ് ജനറൽ ആശുപത്രിയിലേക്ക് ഓടിയ ബോസ്റ്റൺ മാരത്തൺ റണ്ണേഴ്സിന്റെ റിപ്പോർട്ടുകളായിരുന്നു അതിനാൽ ഈ ഖണ്ഡികയിൽ സംസാരിക്കപ്പെടുന്ന അക്കൌണ്ടുകൾ ഇതാ അനുയായികളുടെ എണ്ണം ആദ്യത്തെ മൂന്ന് സീഡുകൾ വളരെ ചെറുതാണെന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ അതിനാൽ വളരെ കുറച്ച് അനുയായികളുള്ള ഫോളോവർ അക്കൌണ്ടുകളിലൂടെ കിംവദന്തികൾ സൃഷ്ടിക്കപ്പെടുമെന്നതാണ് കാര്യം എന്നാൽ ഇത് വേഗത്തിൽ പടരുന്നു കാരണം ഈ ട്വീറ്റുകൾ കാണുന്ന ഭക്ഷണ ശൃംഖലയിൽ ആരെങ്കിലും കൂടുതൽ ജനപ്രീതി നേടി ട്വീറ്റുകൾ നോക്കുകയും അവ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു അതിനാൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ കാണാൻ കഴിയുന്ന ഒരു പ്രശ്നമാണിത് കൂടാതെ ഈ പ്രത്യേക പോസ്റ്റിനെ എങ്ങനെ കുറയ്ക്കാം ഈ പ്രത്യേക കിംവദന്തിയിൽ നിന്ന് അല്ലാത്ത ഒരു ഉപയോക്താവിൽ നിന്ന് ധാരാളം അനുയായികളില്ലാത്ത യഥാർത്ഥത്തിൽ ജനപ്രിയരായ ആളുകളുടെ കൈകളിലേക്ക് പോകുകയും യഥാർത്ഥത്തിൽ അത് റീട്വീറ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്നാൽ സീഡ് 4 നിങ്ങൾ കാണുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ 73000 ഫോളോവേഴ്സ് ആണ് ഇവ മാത്രമാണ് യഥാർത്ഥത്തിൽ കൂടുതൽ പ്രചാരമുള്ള അക്കൌണ്ടുകൾ കൂടാതെ ഇവിടെ ഞാൻ മുമ്പ് പറഞ്ഞ ഗ്രാഫ് ആണ് ആ ഉപകരണം ഉപയോഗിച്ച യഥാർത്ഥ ഉപദ്രവകരവും മറ്റ് വിവരങ്ങളും രചയിതാക്കൾ യഥാർത്ഥത്തിൽ നോക്കി എന്നതാണ് അതിനാൽ എ എല്ലാ വ്യാജ വിവരങ്ങളും എല്ലാ വ്യാജ വിവരങ്ങളിലും അവരിൽ ഭൂരിഭാഗവും യഥാർത്ഥത്തിൽ ഐഫോണുകൾ ഉപയോഗിക്കുന്നതായി തോന്നുന്നു യഥാർത്ഥ വിവരങ്ങളും അതുപോലെ തന്നെയാണെന്ന് തോന്നുന്നു അതേസമയം വ്യാജ വിവരങ്ങൾക്കെതിരായ യഥാർത്ഥ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വെബ് യഥാർത്ഥത്തിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് ലഭ്യമായ വിവരങ്ങളൊന്നും നിങ്ങൾ നോക്കുന്നില്ലെങ്കിൽ വെബ് ഏറ്റവും ഉയർന്നതാണെന്ന് തോന്നുന്നു പോസ്റ്റുചെയ്യുമ്പോൾ ആളുകൾ ഏതുതരം ഉപകരണമാണ് ഉപയോഗിക്കുന്നതെന്ന് മനസിലാക്കാൻ മാത്രമാണ് ഇത് പൊതുവെ രചയിതാക്കൾ ഉറവിട വിശകലനവും ട്വീറ്റ് ചെയ്യുന്നു അതാണ് ഞാൻ പറഞ്ഞത് വ്യാജ ഉള്ളടക്ക ഐഡന്റിഫിക്കേഷനിൽ ഉപയോക്തൃ ആട്രിബ്യൂട്ടുകളുടെ പങ്കിന്റെ വിശകലനം നമുക്ക് നോക്കാം അതായത് അക്കൌണ്ട് പരിശോധിച്ചുറപ്പിച്ചതാണോ ലഭിക്കുന്ന വ്യാജ ഉള്ളടക്കവുമായി അവർ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഫോളോവേഴ്സിന്റെ കാര്യത്തിൽ ഉപയോക്താവിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് പ്രചരിപ്പിച്ചത് ചിത്രം 8 യഥാർത്ഥത്തിൽ 0 മുതൽ 120 മണിക്കൂർ വരെ x ആക്സിസിലെ ഉള്ളടക്കം കാണിക്കുന്നു y അക്ഷം അനുയായികളുടെ എണ്ണമായിരിക്കും ആദ്യത്തേത് യഥാർത്ഥത്തിൽ ഏറ്റവും ഉയർന്നതാണെന്ന് ഇത് വ്യക്തമായി കാണിക്കും ബാധകമല്ലാത്ത ട്വീറ്റിലാണ് തുടർന്ന് യഥാർത്ഥ ഉള്ളടക്കം പിന്തുടരുന്നു തുടർന്ന് വ്യാജ ഉള്ളടക്കങ്ങൾ പിന്തുടരുന്നു ഇത് പിന്തുടരുന്നവരുടെ എണ്ണം മൊത്തം അനുയായികളുടെ എണ്ണം അല്ലെങ്കിൽ പ്രചരിപ്പിക്കപ്പെട്ട ട്വീറ്റുകൾ പിന്തുടരുന്നവർ അത് ഏറ്റവും കുറഞ്ഞ എണ്ണം ഫോളോവേഴ്സിനെ എടുക്കുന്നു അതാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് x അക്ഷം മണിക്കൂറുകളായി y അക്ഷം അനുയായികളുടെ എണ്ണമായി വ്യാജ ത്രികോണം യഥാർത്ഥത്തിൽ ഏറ്റവും താഴ്ന്നതാണ് വ്യാജ ഉള്ളടക്കത്തിന്റെ അനുയായികൾ കുറവാണെന്ന് കാണിക്കുന്നു ചുവപ്പ് ഒന്ന് യഥാർത്ഥ ഉള്ളടക്കത്തിന് അനുയായികളുള്ള ചുവന്ന വൃത്തങ്ങൾ തുടർന്ന് ബാധകമല്ലാത്ത ഉള്ളടക്കത്തിന്റെ യഥാർത്ഥ അനുയായികളായ നീല നിങ്ങൾ വലതുവശത്തുള്ള ഡോട്ടുകൾ നോക്കണം അത് യഥാർത്ഥത്തിൽ പരിശോധിച്ചുറപ്പിച്ച അക്കൌണ്ടുകൾ നിങ്ങളെ കാണിക്കുന്നു സ്ഫോടനം കഴിഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷം പരിശോധിച്ചുറപ്പിച്ച അക്കൌണ്ടുകളും കാണിക്കുന്നു പരിശോധിച്ച അക്കൌണ്ടുകൾ പോസ്റ്റ് ചെയ്ത ധാരാളം ഉള്ളടക്കങ്ങൾ പിന്നീട് ബാധകമല്ലാത്തതും സത്യവുമാണ് അതേസമയം തുടക്കത്തിൽ ചില ഉള്ളടക്കങ്ങൾ വ്യാജ ഉള്ളടക്കത്താൽ പ്രചരിപ്പിക്കപ്പെടുന്നു വ്യാജ ഉള്ളടക്കം യഥാർത്ഥത്തിൽ പരിശോധിച്ചുറപ്പിച്ച അക്കൌണ്ടുകളാൽ പ്രചരിപ്പിക്കപ്പെടുന്നു അതിനാൽ തുടക്കത്തിൽ ആളുകൾ ഉള്ളടക്കം പരിശോധിക്കാത്തപ്പോൾ ആളുകൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ആളുകൾ പരിശോധിക്കുന്നില്ല അവർക്ക് ഒരു പരിശോധിച്ചുറപ്പിച്ച അക്കൌണ്ട് ഉണ്ട് അവർ ഈ ഉള്ളടക്കം തള്ളുകയാണ് അതിനാൽ ഈ ഉള്ളടക്കം വളരെ വേഗത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നു അതിനാൽ വ്യാജ ഉള്ളടക്ക തിരിച്ചറിയലിൽ ഉപയോക്തൃ ആട്രിബ്യൂട്ടുകളുടെ പങ്ക് ഇതാണ് വ്യാജ ഉള്ളടക്കം വിശകലനം ചെയ്യുന്നതിലൂടെ യഥാർത്ഥത്തിൽ പ്രചരിപ്പിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഈ വിശകലനത്തിന്റെ മുഴുവൻ സെറ്റും ഉണ്ട് അതിനാൽ നിങ്ങൾ ഇവിടെ കാണുകയാണെങ്കിൽ ഇവിടെ പരാമർശിച്ചിരിക്കുന്ന ആശയങ്ങളുണ്ട് അവ എന്താണെന്ന് ഞാൻ നിങ്ങളോട് ചുരുക്കമായി പറയാം ക്ലൌഡ് ഗ്ലോബൽ ഇടപഴകൽ മറ്റ് ഉപയോക്താക്കളുമായുള്ള ഇടപെടലുകൾ വിഷയ ഇടപഴകൽ ലിങ്കബിലിറ്റി വിശ്വാസ്യത ഇതെല്ലാം രചയിതാക്കൾ അടിസ്ഥാനപരമായി അവർ ചെയ്തത് അവർ സൃഷ്ടിച്ചതാണ് അവർക്ക് ഇതെല്ലാം ഉണ്ടായിരുന്നു മെട്രിക്സ് SR GE TE L C എന്നിവ വിപരീത ക്രമത്തിലുള്ള വിശ്വാസ്യത ലിങ്കബിലിറ്റി വിഷയ ഇടപെടൽ ആഗോള ഇടപെടൽ സാമൂഹിക പ്രശസ്തി എന്നിവയിലാണ് അവർ ഇത് ഉപയോഗിക്കുകയും ആഘാതം എന്ന് വിളിക്കപ്പെടുന്ന ഒരു മെട്രിക് സൃഷ്ടിക്കുകയും അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഈ ഫീച്ചറുകൾ നമുക്ക് ഉപയോഗിക്കാമോ അഞ്ച് പോസ്റ്റിന്റെ ആഘാതം അല്ലെങ്കിൽ വൈറലാകുന്നത് എന്താണെന്ന് പ്രവചിക്കാൻ ഞാൻ ഇപ്പോൾ പറഞ്ഞതാണ് പോസ്റ്റും അതുപോലുള്ള കാര്യങ്ങളും ആയിരിക്കും ഗ്രാഫ് 9 ഇവിടെ വലതുവശത്തുള്ള ചിത്രം 9 യഥാർത്ഥത്തിൽ ഈ സവിശേഷതകളെല്ലാം ഉപയോഗിച്ച് ഉള്ളടക്കത്തിന്റെ പ്രചരണം കണ്ടെത്താനാകുമെന്ന് കാണിക്കുന്നു അതിനാൽ ഇത് എന്താണ് കാണിക്കുന്നത് മുൻകാല ക്വാണ്ടത്തിൽ ഉപയോക്താക്കൾക്ക് മൊത്തത്തിലുള്ള സ്വാധീനത്തിന്റെ ഫലങ്ങൾ റിഗ്രഷൻ കാണിക്കുന്നു നിലവിൽ വ്യാജ ഉള്ളടക്കം പ്രചരിപ്പിക്കുന്ന ഉപയോക്താക്കളുടെ ആട്രിബ്യൂട്ടുകളെ അടിസ്ഥാനമാക്കി ഭാവിയിൽ വ്യാജ ഉള്ളടക്കം എത്രത്തോളം വൈറലാകുമെന്ന് പ്രവചിക്കാൻ കഴിയുമെന്ന് ഈ ഫലങ്ങൾ കാണിക്കുന്നു അതിനാൽ ട്വിറ്ററിൽ പോസ്റ്റുചെയ്യുന്ന വ്യാജ ഉള്ളടക്കത്തിന്റെ പ്രായോഗികത കണ്ടെത്താൻ ഈ വിവരങ്ങൾ ഉപയോഗിക്കാനാകുമോ എന്നറിയാൻ അവർ അടിസ്ഥാനപരമായി അനുയായികൾ സുഹൃത്തുക്കൾ പ്രിയപ്പെട്ടവർ സ്റ്റാറ്റസ് പരിശോധിച്ചുറപ്പിച്ചവർ എന്നിവരെല്ലാം ഉപയോഗിച്ചു അതിനാൽ മോഡലിന്റെ ഫലങ്ങൾ വ്യക്തിഗത സവിശേഷതകളുമായി താരതമ്യം ചെയ്യുകയും ചിത്രം 9 ൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അവർ കാണിച്ചു ഇംപാക്റ്റ് മെട്രിക്കിനായി ശരാശരി ഞങ്ങൾ ഏകദേശം 0 7 ആർ സ്ക്വയറിന്റെ മൂല്യം കൈവരിക്കുന്നു നിലവിൽ വ്യാജ ഉള്ളടക്കം പ്രചരിപ്പിക്കുന്ന ഉപയോക്താക്കളുടെ ഉള്ളടക്ക ആട്രിബ്യൂട്ടുകളെ അടിസ്ഥാനമാക്കി ഒരു വ്യാജ വിവര ട്വീറ്റ് ഭാവിയിൽ എത്രത്തോളം വൈറലാകുമെന്ന് പ്രവചിക്കാൻ കഴിയുമെന്ന് ഈ ഫലങ്ങൾ ഞങ്ങളെ കാണിക്കുന്നു അതിനാൽ അത് വിശകലനത്തെക്കുറിച്ചാണ് അതിനാൽ രചയിതാക്കൾ നടത്തിയ അവസാന വിശകലനം താൽക്കാലികമായി നിർത്തിവച്ച പ്രൊഫൈൽ വിശകലനം നമുക്ക് നോക്കാം സ്ഫോടന സമയത്ത് സൃഷ്ടിക്കപ്പെട്ട 32000 ട്വിറ്റർ അക്കൌണ്ടുകൾ അവർ തിരിച്ചറിഞ്ഞു ഇവയിൽ സ്ഫോടനത്തിന് 2 മാസം കഴിഞ്ഞ് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ട്വിറ്ററിലൂടെ 19 ശതമാനം ഇല്ലാതാക്കുകയോ സസ്പെൻഡ് ചെയ്യുകയോ ചെയ്തു അതിനാൽ അടിസ്ഥാനപരമായി ഞങ്ങൾക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നതിനാൽ പോസ്റ്റിന് ഒരു ഉപയോക്താവ് ഉണ്ട് ഉപയോക്താവിന് ഒരു ഐഡി ഉണ്ട് ഞങ്ങൾ തിരികെ പോയി പരിശോധിച്ചു രചയിതാക്കൾ തിരികെ പോയി ഈ പ്രത്യേക ഉപയോക്തൃ ഐഡി ഉണ്ടോ എന്ന് പരിശോധിച്ചു ഉപയോക്തൃ ഐഡി ഇല്ലെങ്കിൽ അത് ടാഗുചെയ്തു അത് യഥാർത്ഥത്തിൽ ഇല്ലാതാക്കി സ്ഫോടനം കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ സസ്പെൻഡ് ചെയ്ത പ്രൊഫൈലുകളുടെ എണ്ണം ചിത്രം 10 കാണിക്കുന്നു ഇവന്റിന് ശേഷം ധാരാളം ക്ഷുദ്ര പ്രൊഫൈലുകൾ സൃഷ്ടിക്കപ്പെട്ടതായി ഞങ്ങൾ നിരീക്ഷിച്ചു നിങ്ങൾ ഈ ചിത്രം 10 നോക്കുകയാണെങ്കിൽ ഈ ഗ്രാഫ് സസ്പെൻഡ് ചെയ്ത പ്രൊഫൈലുകളുടെ എണ്ണം കാണിക്കുന്നു അങ്ങനെ സ്ഫോടനത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം സൃഷ്ടിക്കപ്പെട്ട ഏകദേശം 1400 പ്രൊഫൈലുകൾ ഉണ്ടായിരുന്നു അതുപോലെ ഈ ഹാൻഡിലുകൾക്കിടയിൽ നിങ്ങൾക്ക് ലിങ്കുകൾ വരയ്ക്കാനും കഴിയും ലഭിച്ച 9 നെറ്റ്വർക്കുകൾ ചിത്രം 9 കാണിക്കുന്നു ചില ഉപയോക്താക്കളുടെ പേരുകൾ അജ്ഞാതമാക്കിയിരിക്കുന്നു പൂജ്യം ഡിഗ്രി ഉള്ള എല്ലാ നോഡുകളും അവർ നീക്കം ചെയ്തു സസ്പെൻഡ് ചെയ്ത 6000 പ്രൊഫൈലുകളിൽ 69 നോഡുകൾക്ക് ഗ്രാഫിലെ മറ്റൊരു നോഡിലേക്ക് ഒരു അഗ്രമുണ്ടെന്ന് ഞങ്ങൾ കണ്ടെത്തി വ്യാജ ഉള്ളടക്കം പ്രചരിപ്പിക്കുന്ന ഹാൻഡിലുകൾ യഥാർത്ഥത്തിൽ പരസ്പരം ശേഖരിച്ചതാണെന്ന് ഇത് അടിസ്ഥാനപരമായി കാണിക്കുന്നു ഒറ്റ ലിങ്കുകൾ അതിനാൽ ഈ അക്കൌണ്ടുകൾക്കിടയിൽ നാല് തരം ഇടപെടലുകൾ ഞങ്ങൾ കണ്ടെത്തി ഒറ്റ ലിങ്കുകൾ അവർ ആരുമായും ഇടപഴകുന്നില്ല അടച്ച സമൂഹം ഒരു അടച്ച സമൂഹമുണ്ട് അതിനാൽ ഇവിടെ ഗ്രാഫുകൾ ഉണ്ട് അതിനാൽ ഇവയെല്ലാം സിംഗിൾടണുകളാണ് തുടർന്ന് ഈ അടച്ച ആളുകളുടെ മറ്റൊന്ന് ഒരു അക്കൌണ്ടിൽ നിന്ന് മറ്റുള്ളവയിലേക്ക് മാത്രം വിവരങ്ങൾ പ്രചരിക്കുന്നു കൂടാതെ ഈ സ്വയം ലൂപ്പും ഉണ്ട് അവ ഓരോന്നും വ്യാപിക്കുന്നു അതിനാൽ ഞാൻ നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങൾ എന്നോട് ബന്ധപ്പെട്ടിരിക്കുന്നു ഞാൻ നിങ്ങളുടെ ഉള്ളടക്കം പോസ്റ്റുചെയ്യുന്നു നിങ്ങൾ ഉള്ളടക്കം പോസ്റ്റ് ചെയ്യുന്നു ശരിയാണ് അതിനാൽ സാങ്കേതികമായി ഇടതുവശത്ത് ഒറ്റ ലിങ്കുകളുണ്ട് അടച്ച കമ്മ്യൂണിറ്റി സ്റ്റാർ ടോപ്പോളജി ഇവിടെ ഘടനയാണ് സ്വയം ലൂപ്പുകളാണ് ഇവിടെയുള്ളത് സെൽഫ് ലൂപ്പുകൾ ഗ്രാഫുകളിൽ സ്വയം ലൂപ്പുകളുടെ ഫലമായി അവരുടെ ട്വീറ്റുകളിൽ സ്വയം പരാമർശിച്ചിട്ടുള്ള ചില പ്രൊഫൈലുകൾ ഉണ്ട് അതിനാൽ ബോസ്റ്റൺ മാരത്തൺ പരിപാടിയിൽ ട്വിറ്ററിലെ വ്യാജ ഉള്ളടക്ക പ്രചരണം യഥാർത്ഥത്തിൽ വിശകലനം ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ പേപ്പറിൽ നടത്തിയ വിശകലനം അതാണ് ഇത് എല്ലാറ്റിന്റെയും സമഗ്രമായ കാഴ്ചപ്പാടല്ല ഇത് ഒരു തരം വിശകലനം മാത്രമാണ് ഒരു പ്രത്യേക ഇവന്റിന്റെ സമയത്ത് പ്രചരിക്കുന്ന തെറ്റായ വിവരങ്ങൾ നോക്കുന്ന മറ്റ് നിരവധി പേപ്പറുകൾ ഉണ്ട് ഞാൻ നിങ്ങളെ അവിടെ നിർത്താം നമുക്ക് ഉടൻ കാണാം